ഈ വീഡിയോ ക്യാപ്സ്യൂളിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ സ്ഥാപിക്കാനുള്ള ഇൻസ്റ്റാളേഷൻ പ്രക്രിയ നമുക്ക് പരിശോധിക്കാം ഈ കോഴ്സിനായി നിങ്ങൾക്ക് ഫലപ്രദമായ സിമുലേഷൻ ഉണ്ടാക്കാൻ കഴിയും gEDA സോഫ്റ്റ്വെയർ ടൂൾസെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് പദ്ധതി ഇതാണ് ഇലക്ട്രോണിക് ഡിസൈൻ ഓട്ടോമേഷൻ ടൂൾസെറ്റ് തുടർന്ന് നമ്മൾ സർക്യൂട്ട് സിമുലേഷനായി വളരെ ജനപ്രിയമായ ഒരു പാക്കേജായ ngSpice ഇൻസ്റ്റാൾ ചെയ്യും അതിനുശേഷം നമ്മൾ ഒക്ടേവ് ഇൻസ്റ്റാൾ ചെയ്യാം ഒക്ടേവ് ഒരു മാറ്റ്ലാബ് പോലെയുള്ള പരിസ്ഥിതിയാണ് ഇത് നിങ്ങളുടെ പല ഡിസൈൻ ജോലികളും സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനും ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും വളരെ സഹായകരമാണ് അതിനാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മൂന്ന് സെറ്റ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഇവയാണ് ഇതിലൂടെ കടന്നുപോയി നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സിസ്റ്റം കോൺഫിഗർ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം എനിക്ക് ഒരു ഫെഡോറ 23 ലിനക്സ് ഡെസ്ക്ടോപ്പ് ഉണ്ട് അതിനാൽ ഈ പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രക്രിയയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്റെ വിദ്യാർത്ഥികൾ ഉബുണ്ടുവിലും ഇത് പരിശോധിച്ചു അതിനാൽ മറ്റ് ലിനക്സ് വിതരണങ്ങളിൽ പോലും ഇത് മികച്ചതായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു വിൻഡോസിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്റെ വിദ്യാർത്ഥികളും പരീക്ഷിച്ചിട്ടില്ല അതിനാൽ വിൻഡോസിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് കൂടുതൽ അറിയില്ല അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും EDA ngSpice Octave എന്നിവ വിൻഡോസിൽ പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങളെ അറിയിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ മറ്റ് പാക്കേജുകൾ ഉപയോഗിക്കാം ഇതോടെ ഈ സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രക്രിയ നമുക്ക് ആരംഭിക്കാം ഫെഡോറ ഡെസ്ക്ടോപ്പാണ് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് റിസോഴ്സ് ഡൌൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രക്രിയ ആരംഭിക്കേണ്ടത് നമുക്ക് ഫോൾഡറുകൾ തുറക്കാം ഇവിടെ ഞാൻ ഒരു ഡിസി ഡിസി കൺവെർട്ടർ ഫോൾഡർ സൃഷ്ടിച്ചു ആ ഫോൾഡറിനുള്ളിൽ ഞാൻ ഈ resource01 zip ഫോൾഡർ ഫയൽ ഡൌൺലോഡ് ചെയ്തു ഇത് ഗൂഗിൾ ഡ്രൈവിൽ സ്ഥിതിചെയ്യുന്നു ഇതിനുള്ള ലിങ്ക് കോഴ്സ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നു ഇതിന് രണ്ട് ഫോൾഡറുകളും ഒരു ഫയൽ readme txt ഫയലും ഉണ്ട് ഒരു ബിൻ ഫോൾഡറും ഒരു സിംബൽസ് ഫോൾഡറും symbols folder തീർച്ചയായും ഫംഗ്ഷനുകൾ എന്താണെന്നും നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുമെന്നും ഞാൻ പിന്നീട് നിങ്ങളോട് വിശദീകരിക്കും ഇപ്പോൾ അത് അൺസിപ്പ് ചെയ്യുക അതിനുള്ളിൽ നിങ്ങൾ ഈ ഫോൾഡർ കാണും ഈ ഇൻസ്റ്റലേഷൻ പ്രക്രിയയ്ക്ക് മുകളിൽ എങ്ങനെ പോകാം എന്നതിനെക്കുറിച്ചുള്ള ഘട്ടം ഘട്ടമായുള്ള നിർദ്ദേശങ്ങൾ Readme dot text നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ ആ readme txt ഫയൽ തുറന്ന് ഒരു വശത്ത് വയ്ക്കുക ഘട്ടങ്ങൾ പിന്തുടരുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് കമാൻഡുകൾ ഇവിടെ നൽകിയിരിക്കുന്നു അതൊരു ഫെഡോറ സിസ്റ്റമാണെങ്കിൽ നിങ്ങൾ അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കമാൻഡ് ലൈൻ കമാൻഡുകൾ സിസ്റ്റം ആണെങ്കിൽ തത്തുല്യമായി ടൈപ്പ് ചെയ്യുകയോ ചെയ്തേക്കാം വീണ്ടും ഡെസ്ക്ടോപ്പിൽ പോയി ഒരു ടെർമിനൽ തുറക്കുക ഞാൻ വലുപ്പം ക്രമീകരിക്കട്ടെ അതുവഴി എനിക്ക് അത് കാണാൻ കഴിയും ഇനി നമുക്ക് ഇത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഇത് പാസ്വേഡ് ചോദിക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും ഞാൻ ഇതിനകം ഈ പാക്കേജുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് ശേഖരത്തിലെ പാക്കേജുകൾ തിരയുകയും അവ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ഒരു gschem ചെക്ക് gschem ഡോക്സ് നെറ്റ്ലിസ്റ്റ് ചിഹ്നങ്ങൾ utils gschem gEDA g സ്കീമാറ്റിക് എന്നിവയുണ്ട് ഇതാണ് ഈ പ്രത്യേക കോഴ്സിൽ നമ്മൾ കൂടുതൽ ദൈർഘ്യത്തിൽ ഉപയോഗിക്കുന്നത് അതിനാൽ ഡിപെൻഡൻസി പരിഹരിച്ചു ഇനി ഒന്നും ചെയ്യാനില്ല എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇതുവരെ gEDA ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് പാക്കേജുകളുടെ ഒരു ലിസ്റ്റ് നൽകുകയും ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങളോട് ചോദിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ അതെ എന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും അടുത്തതായി നമ്മൾ gEDA കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ g സ്കീമാറ്റിക്സ് തുറന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയും അതിനാൽ ഞാൻ g schem enter എന്ന് ടൈപ്പ് ചെയ്യട്ടെ ഇതുപോലൊന്ന് തുറക്കുന്നത് നിങ്ങൾ കാണാം ഒരു സ്റ്റാറ്റസ് ഡയലോഗ് തുറക്കുന്നു അത് നിങ്ങൾക്ക് ഒരു പാതയുടെ സൂചന നൽകുന്നു അത് എവിടെ നിന്നാണ് എടുക്കുന്നത് അത് ഉപയോക്തൃ ഷെയർ gEDA യിൽ സ്ഥിതി ചെയ്യുന്ന g സ്കീമാറ്റിക് r c ഫയൽ ആണ് എന്നിരുന്നാലും ഈ ഫയലുകൾ പരിഷ്കരിക്കുന്നതിന് ഇതിന് റൂട്ട് അനുമതി ആവശ്യമാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമാക്കണമെങ്കിൽ ഈ ഫയലുകളുടെ ഒരു പകർപ്പ് നിങ്ങളുടെ user gEDA ഫോൾഡറിൽ ഉണ്ടായിരിക്കണം അത് ഞാൻ ഉടൻ നിങ്ങളോട് പറയും ഇത് ക്ലോസ് ചെയ്യുക gEDA ഉപയോക്തൃ ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും ഇതിന് ഇരുണ്ട പശ്ചാത്തലമുണ്ട് ചില ആളുകൾക്ക് ഈ പശ്ചാത്തലം നന്നായി ഇഷ്ടപ്പെട്ടേക്കാം എന്നാൽ ഒരു നേരിയ പശ്ചാത്തലം ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഒരു ലൈറ്റ് bg ഉപയോഗിച്ച് ഡിഫോൾട്ട് g സ്കീം തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഘടകങ്ങൾ ഇവിടെയുണ്ട് ഇവിടെയാണ് നിങ്ങൾക്ക് ലൈബ്രറികൾ ഉള്ളത് ഇവിടെ ഘടകങ്ങളുടെ ഒരു ലിസ്റ്റ് വരുന്നുണ്ട് തുടർന്ന് ഒരു ഷീറ്റിൽ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഈ ഘടകങ്ങൾ തിരഞ്ഞെടുക്കാം തൽക്കാലം ഇത് അടയ്ക്കുക gEDA ഇൻസ്റ്റാൾ ചെയ്തു പ്രവർത്തിക്കുകയും അത് തുറക്കുകയാണെന്നും നമ്മൾക്കറിയാം ഈ സമയത്ത് ഞാൻ അത് കോൺഫിഗർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ലൈറ്റ് ബാക്ക്ഗ്രൌണ്ട് ആക്കി മാറ്റാൻ ഇത് എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇത് മാറ്റാൻ താൽപ്പര്യമുണ്ടാകാം അല്ലെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം ഇരുണ്ട പശ്ചാത്തലം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അത് നിങ്ങൾക്ക് വിട്ടു തരാം എന്നാൽ അത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം അതിനാൽ നിങ്ങൾ ഇവിടെ readme txt ഫയലിൽ കാണുന്നു g netlist ഈ കമാൻഡ് സിന്റാക്സ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക അതിനാൽ ഇത് ഒരു gEDA കമാൻഡ് മാത്രമാണ് അത് എന്തുചെയ്യും അത് ഉപയോക്താക്കളുടെ റൂട്ട് ഡയറക്ടറിയിൽ ഒരു gEDA ഫോൾഡർ സൃഷ്ടിക്കും കൂടാതെ ആ ഡയറക്ടറിയിൽ rc ഫയലുകൾ ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ ഹോമിൽ പോയി കൺട്രോൾH ചെയ്യുകയോ മറയ്ക്കുകകയോ ചെയ്താൽ അത് ഡോട്ട് പ്രിഫിക്സിനൊപ്പം മറഞ്ഞിരിക്കുന്ന ഫയലുകൾ കാണിക്കും അതിനാൽ ഇത് gEDA സൃഷ്ടിച്ചതായി നിങ്ങൾ കാണുന്നു ഇതിൽ നിങ്ങൾക്ക് ലോഗുകളും ഒരു ജ്യോമട്രി ഫയലും ഉണ്ട് ഇവിടെ നമ്മൾ g schem rc gaf rc ഫയലുകൾ എന്തായാലും ഇടണം നമുക്ക് പിന്നീട് അതിലേക്ക് മടങ്ങിവരാം അടുത്തതായി എന്തുചെയ്യണമെന്ന് നമുക്ക് നോക്കാം അടുത്തതായി ഞങ്ങൾ ഒരു gaf ഡയറക്ടറി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെയാണ് gEDA യുടെ ചിഹ്നങ്ങൾ സ്ഥാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഇഷ്ടാനുസൃത ചിഹ്നങ്ങളുടെ ചിഹ്നം ഇതിനുള്ളിൽ സ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ അതിന് ഒരു സ്ഥാനം നൽകും അതിനാൽ ഇത് കോപ്പി ചെയ്ത് ഇവിടെ ടെർമിനലിൽ പേസ്റ്റ് ചെയ്ത് എന്റർ അമർത്തുക അതിനാൽ ഈ gaf ഡയറക്ടറി gaf സൃഷ്ടിക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അത് ഇപ്പോൾ ശൂന്യമാണ് പക്ഷേ നമ്മൾ അത് ചിഹ്നങ്ങൾ കൊണ്ട് പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടാനുസൃത ചിഹ്നങ്ങൾ അടുത്തതായി gaf നുള്ളിൽ സിംബലുകൾ എന്ന് വിളിക്കുന്ന മറ്റൊരു ഉപ ഡയറക്ടറി നമ്മൾ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ ചിഹ്നങ്ങൾ സ്ഥാപിക്കുക കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്ത് എൻറർ ചെയ്യുക ഇത് 2 ഉം errors log എന്നതിലേക്ക് റീഡയറക്ട് ചെയ്യുന്നു ഇത് ഒരു സൂചന മാത്രമാണ് എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോഗ് ഫയലിലേക്ക് പോയി എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം പിശകുകളൊന്നുമില്ല അവിടെ ഒന്നും നൽകില്ല അതിനാൽ ഇപ്പോൾ ഈ പ്രത്യേക ലൈൻ gaf നുള്ളിൽ പ്രവർത്തിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉണ്ടാകും അതിനുള്ളിൽ നമുക്ക് ചിഹ്നങ്ങൾ സ്ഥാപിക്കാം അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഡിസി ഡിസി കൺവെർട്ടർ ഫോൾഡറിലേക്ക് പോകുന്നു അതിനുള്ളിൽ നമുക്ക് റിസോഴ്സ് ഫോൾഡറും സിമ്പൽസ് ഫോൾഡറും ഉണ്ട് സിംബൽസ് ഫോൾഡറിൽ മൂന്ന് ഉപ ഫോൾഡറുകൾ ഉണ്ട് ഒന്നിനെ A ബ്ലോക്ക് A ബോണ്ട് A കോംപ്സ് എന്ന് വിളിക്കുന്നു ആഡ് ക്ലോക്ക് ഗെയിൻ ഇന്റഗ്രേഷൻ മൾട്ടിപ്ലിക്കേഷൻ പിഐഡി പിഡബ്ല്യുഎം ബ്രിഡ്ജ് പിഡബ്ല്യുഎം സിംഗിൾ ഫേസ് സാമ്പിൾ ആൻഡ് ഹോൾഡ് എസ്ആർ ലാച്ച് സമ്മേഷനുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിരവധി ചിഹ്നങ്ങൾ ബ്ലോക്കിന് ഉണ്ട് അതിനാൽ ഇവ ഇഷ്ടാനുസൃത ബ്ലോക്കുകളാണ് കൂടുതൽ ലോജിക് അധിഷ്ഠിതവും കൂടുതൽ വൈദ്യുതി പ്രവാഹവും ഇല്ലാത്തതും അവ ലഭിക്കാൻ രസകരവുമാണ് ഞാൻ പിന്നീട് ഇതിലേക്ക് വരാം ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ലായിരിക്കാം എന്തായാലും അത് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡി ഫോൾഡറിലെ ജനറിക് ഘടകങ്ങളായ കപ്പാസിറ്റർ ഡിഫോൾട്ട് ഡയോഡ് ഒരു പവർ ഡയോഡ് ഒരു സോഴ്സ് ഒരു ഫ്ലോ സോഴ്സ് കറന്റ് സോഴ്സ് ഒരു ഗൈറേറ്റർ ഒരു ഇൻഡക്ടൻസ് പവർ സ്വിച്ച് ഒരു റെസിസ്റ്റൻസ് എസ്സിആർ സിഗ്നൽ സ്വിച്ച് ഒരു ട്രാൻസ്ഫോർമർ ബ്രിഡ്ജിനായി ഒരു ട്രാൻസ്ഫോർമർ മറ്റൊരു ഫ്ലൈ ബാക്ക് ട്രാൻസ്ഫോർമർ ഫോർവേഡ് കൺവെർട്ടർ ട്രാൻസ്ഫോർമർ ഒരു പുഷ് പുൾ ട്രാൻസ്ഫോർമർ ഒരു നോർമൽ ട്രാൻസ്ഫോർമർ എന്നിവ തടയുന്നതിനുള്ള ഘടകമാണ് A കോമ്പുകൾ അതിനാൽ ഇവ ഉപയോഗപ്രദമാകുന്ന ചിഹ്നങ്ങളാണ് ഇത് പ്രത്യേകിച്ച് ഒരു ബോണ്ട് ഗ്രാഫ് സിമുലേഷനായി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് അതിനാൽ ബോണ്ട് ഗ്രാഫുകൾ പരിചയമുള്ളവരും ബോണ്ട് ഗ്രാഫ് മോഡലിംഗും സിമുലേഷനും ചെയ്തിട്ടുള്ള ആളുകളും അത് ഉപയോഗിച്ചേക്കാം എന്നാൽ ഇപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ ഫോൾഡറും നിങ്ങളുമായി പങ്കിടും നിങ്ങൾ ഇതെല്ലാം കോപ്പി ചെയ്ത് gaf ലേക്ക് പോകുക ചിഹ്നങ്ങളിൽ പോയി പേസ്റ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ബിസിനസ്സിലാണ് ശരിയായ ഡയറക്ടറിയിൽ എല്ലാ ചിഹ്നങ്ങളും ഉണ്ട് ഇപ്പോൾ നമുക്ക് ശരിയായ പാത നൽകേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ നമ്മൾ അത് ചെയ്തുകഴിഞ്ഞാൽ പാത നൽകുകയും ബന്ധപ്പെട്ട ഫയലുകൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ രണ്ട് കമാൻഡുകൾ ഉണ്ട് ഒന്ന് ഒരു കമാൻഡ് ആണ് ഘടക ലൈബ്രറി തിരയൽ അത് ഈ പാതയിലൂടെ തിരയുന്നു ഡോളർ ഇൻ ബ്രേസ് ഹോം എന്നത് ഒരു എൻവയോൺമെന്റ് വേരിയബിളാണ് അത് റൂട്ട് ഉപയോക്താക്കളുടെ പാതയെ gaf ലേക്കും ചിഹ്നങ്ങളിലേക്കും കൊണ്ടുപോകും ഇപ്പോൾ ഇത് എല്ലാ ഘടക ലൈബ്രറി തിരയലുകളുടെയും പാതയായിരിക്കണം നിങ്ങൾ അത് തുറക്കുമ്പോൾ അവ നിങ്ങളുടെ g സ്കീമാറ്റിക്കിൽ പ്രതിഫലിക്കും ഇത് gEDA യിലുള്ള ഒരു ഫയലിലേക്കും gaf rc ഇല്ലെങ്കിൽ gaf rc ഫയലിലേക്കും തള്ളപ്പെടും അത് സൃഷ്ടിക്കപ്പെടും അതിനാൽ ഇത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടാനുസൃത gaf rc ഫയലാണ് അത് അവിടെ തിരയുകയും തുടർന്ന് ഇത് കാണുകയും പാത്ത് എൻവയോൺമെന്റ് പാത സജ്ജമാക്കുകയും ചെയ്യും അതിനാൽ നമുക്ക് ഈ കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു പ്രവർത്തിപ്പിക്കാം അതിനാൽ നിങ്ങൾ അത് റൺ ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ മറഞ്ഞിരിക്കുന്ന gEDA ഫയലിലേക്ക് പോയാൽ ഞാൻ അത് മറച്ചത് മാറ്റി അതിനാൽ അതിലേക്ക് ഒരു gaf rc ഫയൽ സൃഷ്ടിച്ചതായി നിങ്ങൾ കാണാം അതിനാൽ gaf rc ഫയലിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്തതെന്തും കാണും ഇവിടെ വരുമായിരുന്ന സാധാരണ ലൈബ്രറി തിരയൽ അതിനാൽ gEDA തുറക്കുമ്പോൾ അത് ഈ ഫയലിലേക്ക് നോക്കും ഈ പാത്ത് ഡിക്ലറേഷൻ കാണുക തുടർന്ന് പാത്ത് ഉചിതമായി ഓർക്കുക അടുത്തതായി പശ്ചാത്തല വെളിച്ചം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനാൽ അതാണ് ഈ ലോഡ് ബിൽഡ് par gda gschem rc ആ gschem rc ലേക്ക് ഞങ്ങൾ ഇത് ഇടും g sym കളർ മാപ്പ് ലൈറ്റ് bg അതിനാൽ ഡാർക്ക് b g ക്ക് പകരം നമുക്ക് ഒരു ലൈറ്റ് b g വേണം തുടർന്ന് അത് geda gschem rc ഫയലിൽ ഇടുക അതിനാൽ ഞങ്ങൾ അത് പകർത്തി ഇവിടെ ഒട്ടിക്കും അതിനാൽ അത് അവിടെ പ്രവേശിക്കുമായിരുന്നു അതിനാൽ gschem rc സൃഷ്ടിച്ചതും അതിനുള്ളിൽ ഇത് പകർത്തിയതും നിങ്ങൾ ഇവിടെ കാണുന്നു അതിനാൽ അത് അവിടെ നോക്കുകയും ശരിയായ പശ്ചാത്തല വർണ്ണം യാന്ത്രികമായി നൽകുകയും ചെയ്യും ഇപ്പോൾ ഞാൻ കൺട്രോൾ H ചെയ്യുകയും എല്ലാ ഡോക് പ്രിഫിക്സ് ഫയലുകളും മറയ്ക്കുകയും ചെയ്യും അങ്ങനെ അത് ഫോൾഡറുകൾ അലങ്കോലപ്പെടുത്തില്ല ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് gschem പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇപ്പോൾ ബാക്ക്ഗ്രൌണ്ട് നേരിയതാണെന്ന് നിങ്ങൾ കാണുന്നു ഇത് പ്രാദേശിക ഉപയോക്താക്കളിൽ നിന്നും gda ഡയറക്ടറി gschem r c ലോക്കലിൽ നിന്നും r c എടുക്കുന്നതായി നിങ്ങൾ കാണുന്നു അതിനാൽ ശരിയായി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് പൂർണ്ണ സ്ക്രീനിൽ തുറക്കാൻ കഴിയും സൂം ഔട്ട് സൂം ഇൻ ചെയ്യാൻ നിങ്ങൾക്ക് മൌസിന്റെ വീൽ ബട്ടൺ ഉപയോഗിക്കാം തുടർന്ന് ഘടകങ്ങളിലേക്ക് പോകുക ഞങ്ങളുടെ ഇഷ്ടാനുസൃത ലൈബ്രറികൾ A ബ്ലോക്ക് A ബോണ്ട് ഘടകങ്ങൾ ഇവിടെ പ്രതിഫലിക്കുന്നതായി നിങ്ങൾ കാണുന്നു അതിനാൽ ഞാൻ അത് തുറന്നാൽ അവയെല്ലാം ഇവിടെ ചിഹ്നങ്ങളിൽ വരുന്നതായി കാണുന്നു അത് വളരെ മനോഹരവും തുടർന്ന് ഘടകവുമാണ് ഇപ്പോൾ ഇത് അടച്ച് വീണ്ടും ടെർമിനലിലേക്ക് മടങ്ങുക txt ഫയലിലേക്ക് തിരികെ പോകുമ്പോൾ സിമുലേഷന്റെ അടുത്ത ഭാഗം ngSpice ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിനാൽ ngSpice ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ ശരിയായതാണ് നിങ്ങൾ ഇത് കോപ്പി ചെയ്താൽ മതി dnf ngSpice ഇൻസ്റ്റാൾ ചെയ്ത് ഈ ടെർമിനൽ സ്ക്രീൻ മായ്ക്കാൻ എന്നെ അനുവദിക്കൂ കൺട്രോൾ L അത് മായ്ച്ചു പേസ്റ്റ് ചെയ്യുക അതിനാൽ sudo ഇപ്പോൾ ngSpice ഇൻസ്റ്റാൾ ചെയ്യുക പാസ്വേഡ് നൽകുക തീർച്ചയായും എന്റെ കാര്യത്തിൽ ഇത് ഇതിനകം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടേത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രത്യേക പാക്കേജിൽ അത് സേവ് ചെയ്യും ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടയോ എന്നതുണ്ടാകും യെസ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾക്കിത് പൂർത്തിയാക്കാൻ കഴിയും അതിനുശേഷം നിങ്ങൾ tcl spice ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് tcl spice ഇല്ലെങ്കിലും tcl spice ന് ഉപയോഗപ്രദമായ ചില ലൈബ്രറികൾ tcl spice നുണ്ട് ദയവായി tcl spice ഇൻസ്റ്റാൾ ചെയ്യുക ഇത് ഇതിനകം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് തുടർന്ന് നിങ്ങൾക്ക് അത്തരമൊരു സന്ദേശം ലഭിക്കും അതിനാൽ ഇപ്പോൾ ngSpice ഉം നിലവിലുണ്ട് നിങ്ങൾക്ക് അത് പരിശോധിക്കണമെങ്കിൽ ngSpice help എന്ന് ടൈപ്പ് ചെയ്യുക അതിനാൽ അത് നിങ്ങൾക്ക് ഓപ്ഷനുകളുടെ മെനുവും അതിലൂടെ എങ്ങനെ ഉപയോഗിക്കാമെന്നും നൽകും കൂടാതെ നിങ്ങൾക്ക് spice എങ്ങനെ നൽകണമെന്ന് അറിയില്ലെങ്കിൽ ngSpice മാനുവൽ ഡൌൺലോഡ് ചെയ്ത് അത് വായിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഇത് വിൻഡോസുകളുടെ pSpice ആയി വളരെ സാമ്യമുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ബെർക്ക്ലി സ്പൈസിന്റെ പുറത്തുള്ള ഒരു ലോകമാണ് സാർവത്രികമായി പലരും ഉപയോഗിക്കുന്നതുമാണ് നോക്കൂ ഞാൻ ngSpice എന്ന് ടൈപ്പ് ചെയ്യുന്നു അത് ngSpice ലേക്ക് പോയി റൺ ചെയ്യും ഇത് ngSpice പതിപ്പ് 26 പ്ലസ് ആണ് ബെർക്ക്ലി CAD ഗ്രൂപ്പ് വികസിപ്പിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ngSpice പരിസ്ഥിതി പ്രോംപ്റ്റ് ലഭിക്കും അതിനാൽ ngSpice പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പാക്കേജ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അതാണ് ഒക്ടേവ് Octave വളരെ ശക്തമായ ഒരു ഉപകരണമാണ് അത് MATLAB ന് തുല്യമായ ഒരു ഓപ്പൺ സോഴ്സ് ആണ് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കാവുന്ന ഒരു നല്ല പാക്കേജായ MATLAB നേക്കാൾ വളരെ ശക്തമാണെന്ന് ഞാൻ കാണുന്നു ഇവിടെ പേസ്റ്റ് ചെയ്യുക ഞാൻ dnf ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫെഡോറ 23 കാരണം ഈ പ്രക്രിയയിൽ ഞാൻ എല്ലായിടത്തും dnf ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫെഡോറ 22 മുതൽ ഞങ്ങൾ dnf ഉപയോഗിക്കേണ്ടതുണ്ട് ഫെഡോറ 22 ന് മുമ്പുള്ള പാക്കേജ് ഇൻസ്റ്റാളർ yum ആയിരുന്നു അതിനാൽ 22 ന് മുമ്പുള്ള ഫെഡോറ പതിപ്പ് ഉള്ള ആളുകൾ ദയവായി yum ഉപയോഗിക്കുക കൂടാതെ ഉബുണ്ടു ആളുകൾക്ക് apt get package installer ഉപയോഗിക്കാവുന്നതാണ് അതിനാൽ ഈ എന്റർ അമർത്തുക ബാക്കിയുള്ളത് പാക്കേജ് ഇൻസ്റ്റാളർ ചെയ്യും ഇവിടെ വീണ്ടും നിങ്ങൾ എല്ലാം ഇതിനകം ഇൻസ്റ്റാൾ ചെയ്തതായി കാണുന്നു കൂടാതെ ഡിപൻഡൻസി പരിഹരിച്ച് മറ്റൊന്നും ചെയ്യേണ്ടതില്ല ഇപ്പോൾ ഒക്ടേവ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒക്ടേവ് എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ഒരു gui പോപ്പ് അപ്പ് ചെയ്യുന്നത് കാണും ഇത് MATLAB gui പോലെ കാണപ്പെടുന്നു ഇവിടെയാണ് വർക്ക് സ്പേസ് വിൻഡോ ഉള്ളത് ഇവിടെയാണ് നിങ്ങൾ എല്ലാ ജോലികളും വിൻഡോസ് ചെയ്യുന്നത് അതിനാൽ ഒക്ടേവ് പ്രവർത്തിക്കുന്നു ഇത് ഫോർ പ്ലസ് പതിപ്പ് ആണ് ഒക്ടേവിന്റെ മുൻ പതിപ്പുകളിൽ ഭൂരിഭാഗവും ഒരു gui സംയോജിപ്പിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ ഇത് ngSpice പരിതസ്ഥിതി പോലെ ടെർമിനലിൽ പ്രവർത്തിക്കും അതിനാൽ നിങ്ങൾക്ക് അത്തരം ഒരു പരിതസ്ഥിതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ octave no gui എന്ന് ടൈപ്പ് ചെയ്യുക അതിനാൽ നിങ്ങൾക്ക് അത് ടെർമിനലിൽ ലഭിക്കും ഇത് വളരെ വേഗതയുള്ളതാണ് കൂടാതെ ഈ ടെർമിനൽ എൻവയോൺമെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തുല്യമായ നല്ല പ്രോഗ്രാമിംഗ് ചെയ്യാൻ കഴിയും അതിനാൽ ഞാൻ അത് ഉപേക്ഷിക്കട്ടെ ഇത് ഉപയോഗിച്ച് നമ്മൾ മൂന്ന് പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്തു EDA ഇലക്ട്രോണിക് ഡിസൈൻ ഓട്ടോമേഷൻ ആണ് ഒന്ന് അടുത്തതായി spice ngSpice tcl spice എന്നിവ ഇൻസ്റ്റാൾ ചെയ്തു തുടർന്ന് octave ഞങ്ങൾ അത് ഫെഡോറ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തു നിങ്ങൾക്ക് മറ്റ് വിതരണങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദയവായി അത് പിന്തുടരുക തുടർന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ തീർച്ചയായും ചർച്ച ചെയ്യാൻ ഒരു ഫോറം ഉണ്ടെങ്കിൽ നെറ്റിലും സഹായം തേടുക ഞങ്ങൾ ചെയ്യേണ്ട അവസാനത്തെ ഒരു ജോലിയുണ്ട് അത് നാലാം ഘട്ടമാണ് അത് നിങ്ങൾ ചെയ്യേണ്ടതില്ലാത്ത കാര്യമാണ് എന്നാൽ ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നതും സഹായകരവുമായ ഒന്നാണത് അതിനാൽ ഇത് നിർബന്ധമല്ല അതിനാൽ നിങ്ങളുടെ ഉപയോക്തൃ ഹോമിൽ ഒരു ബിൻ ഫോൾഡർ ഇല്ലെങ്കിൽ ഒന്ന് സൃഷ്ടിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഒരു ബിൻ ഫോൾഡർ സൃഷ്ടിക്കുക അതിനാൽ ഒരു ബിൻ ഫോൾഡർ സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ കാണുന്നു തുടർന്ന് ഡിസി ഡിസിയിലേക്ക് പോകുക ഈ ബിൻ ഫോൾഡർ ഇവിടെയുണ്ട് ഇവിടെ ആറ് ഫയലുകൾ ഉണ്ട് ng പ്ലോട്ട് ngsim qplot qsim spice read file പിന്നെ ഈ updatenet അതിനാൽ നിങ്ങൾ അവയെല്ലാം പകർത്തി അവിടെ തിരികെ ബിന്നിലേക്ക് പോയി പേസ്റ്റ് ചെയ്യുക ഫൈൻ ngsim qsim എന്നിവ എക്സിക്യൂട്ടബിൾ ആക്കണം രണ്ടും ഒക്ടേവ് സ്ക്രിപ്റ്റുകളാണ് ഒക്ടേവ് സ്ക്രിപ്റ്റുകൾ അർത്ഥമാക്കുന്നത് അത് എന്നതിൽ തുടങ്ങുന്നു എന്നാണ് യൂസർ ബിൻ ഒക്ടേവ് അതിനാൽ ഇത് കോൾ ചെയ്യുന്നു ഇത് ടെർമിനലിൽ നിന്ന് നേരിട്ട് ഒക്ടേവ് പ്രവർത്തിക്കുന്നു അതിനാൽ ഇവ ഉപയോഗപ്രദമായ സ്ക്രിപ്റ്റുകളാണ് അവ ആവശ്യമുള്ള സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് പറയും പക്ഷേ നിങ്ങൾ ഇത് തയ്യാറാക്കുന്നതാണ് നല്ലത് അതിനാൽ ഇവ രണ്ടും എക്സിക്യൂട്ടബിൾ ആക്കുന്നതിന് read me ഫയലിൽ ഈ രണ്ട് കമന്റുകളും ഞാൻ ഇട്ടിട്ടുണ്ട് മോഡ് u x qsim മാറ്റുക അതിനാൽ അവ എക്സിക്യൂട്ടബിൾ ആക്കും അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ടെർമിനൽ സിഡി ബിന്നിലേക്ക് പോകുക അതിനാൽ അതിൽ ആറ് ഫയലുകൾ ഉണ്ടെന്ന് നിങ്ങൾ കാണും ch mod u x ngsim അതിനാൽ അത് എക്സിക്യൂട്ടബിൾ ആക്കും ch mod q x qsim അതും എക്സിക്യൂട്ടബിൾ ആക്കും അതിനാൽ അതാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ഭാഗം കഴിഞ്ഞു അടുത്തതായി നമുക്ക് നമ്മുടെ സിമുലേഷൻ സ്കീമാറ്റിക്സ് നിർമ്മിക്കാനും സർക്യൂട്ടുകൾ അനുകരിക്കാനും കഴിയും ഈ ഭാഗം ഈ ഇൻസ്റ്റലേഷൻ ഭാഗം ഒരു തവണയാണ് അതിനാൽ ഈ ജോലി വൃത്തിയായും കൃത്യമായും ചെയ്യാൻ ഇപ്പോൾ പരിശ്രമിക്കുന്നത് മൂല്യവത്താണ് എന്നിട്ട് അത് മറക്കുക അടുത്തതായി നിങ്ങൾക്ക് സർക്യൂട്ടുകളിലും സിമുലേഷനിലും മാത്രമേ കാര്യങ്ങൾ ചെയ്യാനാകൂ